വൈദ്യുതകാന്തിക മണ്ഡലങ്ങളിലൂടെയുള്ള ഊർജ്ജ ഗതാഗതം പോയിന്റിംഗ് വെക്റ്റർ നമ്മൾ വൈദ്യുതകാന്തിക മണ്ഡലങ്ങളെക്കുറിച്ച് പഠിക്കുകയും മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളാൽ അവ നിയന്ത്രിക്കപ്പെടുമെന്ന് പഠിക്കുകയും ചെയ്തു അതിനാൽ തുടർന്ന് ഉപയോഗിക്കേണ്ടതിനാൽ അവ ഞാൻ ഇവിടെ എഴുതട്ടെ അവയാണ് ഡൈവർജൻസ് E എന്നാൽ rho ഓവർ എപ്സിലോൺ 0 ആണെന്നും കേൾ E എന്നാൽ കാന്തിക മണ്ഡലത്തിലെ മൈനസ് മാറ്റമാണെന്നും ഇതിൽ ആദ്യത്തേതാണ് ഗോസിന്റെ നിയമം രണ്ടാമത്തേത് ഫാരഡെയുടെ നിയമമാണ് മൂന്നാമത്തേത് B യുടെ കേൾ mu 0 j പ്ലസ് mu 0 തവണ നമ്മൾ മുൻപ് ചർച്ചചെയ്ത ഡിസ്പ്ലേസ്മെൻറ് കറൻറ് അതായത് പാർഷ്യൽ E by പാർഷ്യൽ t എന്ന സമവാക്യവും അവസാനമായി ഡൈവർജൻസ് B പൂജ്യത്തിന് തുല്യമായിരിക്കും എന്നതുമാണ് ഏതൊരു വൈദ്യുതകാന്തിക പ്രതിഭാസത്തെയും വിവരിക്കാൻ ഇത് പര്യാപ്തമാണ് ശൂന്യമായ സ്ഥലത്താണ് ഞാൻ ഈ ഫീൽഡുകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്പർ 1 വൈദ്യുതകാന്തിക മണ്ഡലം അതായത് വൈദ്യുതവും കാന്തികക്ഷേത്രവും ഒരുമിച്ച് ഊർജ്ജം കൊണ്ടുപോകുന്നു അതിനാൽ എനിക്ക് കാന്തികവും വൈദ്യുത മണ്ഡലവും ഒരുമിച്ച് ഉണ്ടെങ്കിൽ അവ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഊർജ്ജം എത്തിക്കുന്നു രണ്ട് വൈദ്യുതകാന്തിക മണ്ഡലത്തിന് ഒരു മൊമെൻ്റം ഉൾക്കൊള്ളുന്നു കൂടാതെ അവ ലീനിയർ മൊമെൻ്റം വഹിക്കുകയാണെങ്കിൽ r ക്രോസ് p എന്നത് ആംഗുലർ മൊമെൻ്റം ആണ് അതിനാൽ വൈദ്യുതകാന്തിക മണ്ഡലങ്ങളും ആംഗുലർ മൊമെൻ്റം വഹിക്കുന്നു ഈ പ്രഭാഷണത്തിൽ ഊർജ്ജത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതിനായി ഉപരിതലം S ഉള്ള ഒരു അടച്ച വോളിയം V നമുക്ക് പരിഗണിക്കാം എനിക്ക് ഇത് രണ്ടും ആവശ്യമാണ് അതിനാൽ ഞാൻ ഇവിടെ ഇവ വ്യക്തമാക്കുന്നു ഉപരിതലത്തിൽ ഓരോ പോയിന്റിലും n എന്ന ഈ യൂണിറ്റ് വെക്റ്റർ ഉണ്ട് ഇതിനുള്ളിൽ ചാർജ് സാന്ദ്രത rho ഉം വൈദ്യുതധാരകളും ഉണ്ട് അതിന് ചുറ്റും ഒരു വൈദ്യുതകാന്തികക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് E ഫീൽഡും B ഫീൽഡും ഉണ്ടാകും നിങ്ങൾക്ക് വ്യക്തമായി കാണാനായി ഞാൻ ഈ വോളിയത്തിൻറെ അറ്റങ്ങൾ കുറച്ച് കട്ടിയുള്ളതാക്കും എനിക്ക് ഇപ്പോൾ അറിയേണ്ടത് ഈ ഫീൽഡുകൾ ഈ വോള്യത്തിലേക്ക് എത്ര ഊർജ്ജം കടത്തിവിടുന്നു അല്ലെങ്കിൽ എത്ര ഊർജ്ജം എടുക്കുന്നു എന്നതാണ് ചാർജുകളും വൈദ്യുതധാരകളും ഉള്ള ഫീൽഡുകളുടെ ഇടപെടലിലൂടെ മാത്രമേ ഊർജ്ജം അകത്തേക്ക് പോകാനും പുറത്തു വരാനും കഴിയൂ ഇതിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതെന്തെന്നാൽ നമ്പർ 1 കാന്തിക മണ്ഡലം ചാർജുകളിൽ പ്രവർത്തിക്കില്ല കാരണം കാന്തിക മണ്ഡലം മൂലമുള്ള ബലം v ക്രോസ് B മടങ്ങ് ചാർജ് q ഉം പവർ എന്നാൽ പൂജ്യത്തിനു തുല്യമായ v ഡോട്ട് F ഉം ആയിരിക്കും അതിനാൽ ഈ ചാർജുകളിലും വൈദ്യുതധാരകളിലും വർക്ക് ചെയ്യുന്നത് വൈദ്യുത മണ്ഡലം മാത്രമായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എത്ര വർക്ക് ചെയ്യുന്നു ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് യൂണിറ്റ് വോള്യത്തിന് E ഡോട്ട് j ആണ് ഒരു യൂണിറ്റ് വോളിയത്തിന് അത് കാണാൻ എളുപ്പമാണ് FqvBPv F0 ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക്E jവോളിയം എനിക്ക് ഒരു നിശ്ചിത ചാർജും സാന്ദ്രത rho r ഉം ഉണ്ടെങ്കിൽ അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള ബലം E തവണ rho r ആയിരിക്കും കൂടാതെ വിതരണം ചെയ്ത പവർ V ഡോട്ട് F ആകും ഇത് V ഡോട്ട് E തവണ rho r ആണ് കൂടാതെ rho v എന്നത് j അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ പവർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സമയത്തിന് ചെയ്യുന്ന വർക്ക് J ഡോട്ട് E ആയിരിക്കും അത് നോക്കാനുള്ള മറ്റൊരു മാർഗ്ഗം എനിക്ക് ഒരു വയർ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ വളരെ ചെറിയ ഒരു ഘടകം എടുത്താൽ അപ്പോൾ ഇതിലെ പവർ v തവണ I ആകും ഇത് ജൂൾസ് ഹീറ്റിംഗ് ആണ് കൂടാതെ ഈ v എന്നത് ഈ ചെറിയ L ദൈർഘ്യമുള്ള E തവണയല്ലാതെ മറ്റൊന്നുമല്ല I എന്നാൽ j തവണ a അല്ലാതെ മറ്റൊന്നുമല്ല കൂടാതെ നിങ്ങൾക്ക് ഇത് E j ഡെൽറ്റ L a എന്ന് എഴുതാം ഇത് ആ ചെറിയ വോളിയം v അല്ലാതെ മറ്റൊന്നുമല്ല E j എന്നത് e dot j ആണ് കാരണം വൈദ്യുതി എത്തിക്കുന്നതിൽ വരുന്നത് j യുടെ ദിശയിലുള്ള E യുടെ ഘടകം മാത്രമാണ് അതിനാൽ വിതരണം ചെയ്ത പവർ j dot E ആണെന്ന് നമ്മൾ രണ്ട് വഴികളിലൂടെ കണ്ടു

E PV IE l j aEjlaE j അതിനാൽ ഞാൻ ചാർജ് സാന്ദ്രത rho r കറൻറ് സാന്ദ്രത j എന്നിവയുള്ള മുൻ വോളിയം വീണ്ടും എടുത്താൽ വാസ്തവത്തിൽ ഞാൻ അവ വേറെയായി എഴുതുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ rho r ഒഴുകുന്നത് j ആയാണ് അപ്പോൾ ഈ വോള്യത്തിനുള്ളിലെ ഈ സിസ്റ്റത്തിലെ ഊർജ്ജത്തിന്റെ മാറ്റത്തിന്റെ നിരക്ക് ഈ പ്രദേശത്തിന്റെ മൊത്തം വോള്യത്തിൽ ഇൻ്റഗ്രൽ E ഡോട്ട് J ചെയ്തതിനു തുല്യമായിരിക്കും നമുക്ക് ഇപ്പോൾ മാക്സ്വെല്ലിന്റെ കേൾ B എന്നാൽ mu 0 j പ്ലസ് mu 0 എപ്സിലോൺ 0 dE dt എന്നതിനു തുല്യമായ സമവാക്യം ഉപയോഗിക്കാം ഇതിൽ നിന്ന് j യ്ക്ക് 1 ഓവർ mu 0 കേൾ B മൈനസ് എപ്സിലോൺ 0 dE dt എന്ന സമവാക്യം ലഭിക്കുന്നു അതിനാൽ എനിക്ക് dw by dt എന്നതിനെ വോളിയം ഇന്റഗ്രൽ d v E ഡോട്ട് 1 ഓവർ mu 0 കേൾ B മൈനസ് എപ്സിലോൺ 0 dE dt എന്ന് എഴുതാം അതിനെ വീണ്ടും ഇന്റഗ്രൽ d v E ഡോട്ട് കേൾ B ഓവർ mu 0 മൈനസ് ഇന്റഗ്രൽ d v എപ്സിലോൺ 0 E dE dt എന്ന് എഴുതാവുന്നതാണ് ഈ പദത്തിനെ മൊത്തമായി 1 by 2 E സ്ക്വയർ d by dt എന്നെഴുതാം

B0 dV 0E B0 dV012E2∂t അതിനാൽ എനിക്ക് dw dt എന്നതിനെ 1 ഓവർ mu 0 ഇന്റഗ്രൽ d v E ഡോട്ട് കേൾ B മൈനസ് 1 by 2 എപ്സിലോൺ 0 ഇന്റഗ്രൽ E സ്ക്വയർ dv എന്ന് എഴുതാവുന്നതാണ് ഈ വോള്യത്തിൽ വൈദ്യുത മണ്ഡലത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ഇതാണ് എന്ന് ഓർക്കുക ഇപ്പോൾ ഞാൻ ഒരു വെക്റ്റർ ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പോകുന്നു അത് പറയുന്നത് E ക്രോസ് B യുടെ ഡൈവർജൻസ് മറ്റൊന്നുമല്ല B ഡോട്ട് കേൾ E മൈനസ് E ഡോട്ട് കേൾ B അപ്പോൾ എനിക്ക് E ഡോട്ട് കേൾ B എന്നതിനെ B ഡോട്ട് കേൾ E മൈനസ് ഡൈവർജൻസ് E ക്രോസ് B എന്ന് എഴുതാവുന്നതാണ് കേൾ E എന്നാൽ മൈനസ് dB by dt ആയിരിക്കും അപ്പോൾ മുൻപത്തെ സമവാക്യത്തിനെ മൈനസ് B dB by dt മൈനസ് ഡൈവർജൻസ് E ക്രോസ് B എന്നെഴുതാം ഇതിനെ വീണ്ടും മൈനസ് 1 by 2 d by dt B സ്ക്വയർ മൈനസ് ഡൈവർജൻസ് E ക്രോസ് B എന്നെഴുതാം ഈ മുൻപത്തെ സമവാക്യവും ആയി താരതമ്യം ചെയ്ത് നമുക്ക് ഇതിനെ dW by dt എന്നാൽ മൈനസ് ഇന്റഗ്രൽ B സ്ക്വയർ ഓവർ 2 mu 0 d v മൈനസ് 1 by 2 എപ്സിലോൺ 0 ഇന്റഗ്രൽ E സ്ക്വയർ d v ഇപ്പോൾ എനിക്ക് കാന്തികവും വൈദ്യുതോർജ്ജവും നൽകിയ രണ്ട് പദങ്ങൾ ലഭിച്ചു വീണ്ടും മൈനസ് 1 ഓവർ mu 0 ഇന്റഗ്രൽ d v ഡൈവർജൻസ് E ക്രോസ് B എന്നീ മൂന്ന് പദങ്ങൾ ലഭിച്ചു ഇനി നമുക്ക് അവയെ ലളിതമാക്കാം dWdt10dV E B 120E2dV EBB E E E BB E EB B

dWdt B220dV 120E2dV dV 10 അതിനാൽ ഞാൻ വീണ്ടും ഈ വോള്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിനുള്ളിൽ ഈ പ്രവാഹങ്ങളും ചാർജ് സാന്ദ്രതയും ഉണ്ട് കൂടാതെ നമുക്ക് ലഭിച്ച കാര്യം അതിനകത്തെ മെക്കാനിക്കൽ ഊർജ്ജത്തിന്റെ മാറ്റം മൈനസ് 1 ഓവർ 2 mu 0 ഇന്റഗ്രൽ B സ്ക്വയർ d v മൈനസ് 1 ഓവർ 2 എപ്സിലോൺ 0 ഇന്റഗ്രൽ E സ്ക്വയർ d v മൈനസ് 1 ഓവർ mu 0 ഇന്റഗ്രൽ d v ഡൈവർജൻസ് E ക്രോസ് B എന്ന് ലഭിച്ചു എനിക്ക് ഇപ്പോൾ ഡൈവർജൻസ് സിദ്ധാന്തം ഉപയോഗിച്ച് മൂന്നാമത്തെ പദത്തിനെ മാറ്റി അതിനുപകരം മൈനസ് ഇന്റഗ്രൽ d s ഡോട്ട് 1 ഓവർ mu 0 E ക്രോസ് B എന്ന് എഴുതാൻ കഴിയും ഇവിടെ ഈ ഉപരിതല ഇന്റഗ്രലിനുള്ള വെക്റ്റർ ചിഹ്നം n പുറത്തുവരുന്നു ഈ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉപരിതല ഘടകമാണിത് ഈ വോള്യത്തിനുള്ളിൽ ഈ സംഭവിക്കുന്ന മാറ്റങ്ങൾ എല്ലാം ഈ രണ്ടു പദങ്ങളെ ആശ്രയിച്ചാണ് ഒന്ന് കാന്തിക മണ്ഡലത്തിലെയും വൈദ്യുത മണ്ഡലത്തിലെയും ഊർജ്ജത്തിലെ മാറ്റവും കൂടാതെ ഈ രണ്ടാമത്തെ പദവുമാണ് ഇത് വ്യാഖ്യാനിക്കാൻ നമുക്ക് ഇത് അല്പം വ്യത്യസ്തമായി എഴുതാം dWdt B220dV 120E2dV dS 10 ഇവിടെ ഞാൻ dw dt എഴുതുന്നു അതായത് പവർ പോകുന്ന സിസ്റ്റത്തിനുള്ളിലെ ആകെ പവർ മാറ്റം പ്ലസ് മൊത്തം ഊർജ്ജം E ഇലക്ട്രോ മാഗ്നറ്റിക് എന്നതിൻറെ d by dt നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഊർജ്ജത്തിന്റെ ആകെത്തുകയാണ് അത് ഇവിടെ ഉള്ള കാന്തികക്ഷേത്രവും വൈദ്യുത മണ്ഡലവും മൂലമാണ് ഞാൻ അത് ഇടത് വശത്തേക്ക് കൊണ്ടുവന്നു അതിനാൽ ഇത് പ്ലസ് ആണ് അങ്ങനെ ഇത് ഇന്റഗ്രൽ 1 ഓവർ mu 0 E ക്രോസ് B ഡോട്ട് ds പ്രൈം എന്നതിന് തുല്യമാണ് അതിനാൽ ആ ds പ്രൈം മറ്റൊന്നുമല്ല ഇത് ds ന് വിപരീതമാണ് അതായത് ഈ ds പ്രൈം വോളിയത്തിനകത്തേക്ക് പോകുന്നു എന്താണ് ഇതിന്റെ അര്ഥം ഇതിനർത്ഥം ഈ വോള്യത്തിനുള്ളിലെ ഊർജ്ജത്തിന്റെ മാറ്റം അത് മെക്കാനിക്കൽ ഊർജ്ജത്തിൻറെ മാറ്റത്തിനും കൂടാതെ വൈദ്യുതകാന്തിക ഊർജ്ജത്തിനും തുല്യമാണ് അത് വോളിയത്തിലേക്ക് പോകുന്ന ഒരു ഊർജ്ജത്തിന് തുല്യമാണ് അതിനാൽ ഒരു യൂണിറ്റ് പ്രദേശത്തിന് ഒരു യൂണിറ്റ് സമയത്തിൽ ഒഴുകുന്ന ഊർജ്ജം ആയതിനാൽ ഞാൻ ഇതിനെ 1 ഓവർ mu 0 E ക്രോസ് B എന്ന് വിളിക്കും E ക്രോസ് B യുടെ ദിശ വോളിയത്തിലേക്ക് ആണെങ്കിൽ ഊർജ്ജം അകത്തേക്ക് പോകും അപ്പോൾ ഇടത് വശത്ത് പോസിറ്റീവ് ആയിരിക്കണം മറുവശത്ത് E ക്രോസ് B യുടെ ദിശ പുറത്തേക്ക് ആണെങ്കിൽ അതായത് വോളിയത്തിൽ നിന്ന് അകലെ അപ്പോൾ E ക്രോസ് B ഡോട്ട് d s പ്രൈം നെഗറ്റീവ് ആയിരിക്കും ഊർജ്ജം പുറത്തുപോകും അതിനാൽ ഇടത് വശത്തെ പദം നെഗറ്റീവ് ആയിരിക്കും അതിനാൽ ഉള്ളിലെ ഊർജ്ജം കുറയുന്നു dWdtddtEഇലക്ട്രോ മാഗ്നറ്റിക്10EB dS അതിനാൽ ഈ പദത്തിന്റെ വ്യാഖ്യാനമാണ് 1 ഓവർ mu 0 E ക്രോസ് B ഇത് സാധാരണയായി S എന്ന് എഴുതുകയും പോയിന്റിംഗ് വെക്റ്റർ എന്നറിയപ്പെടുകയും ചെയ്യുന്നു കൂടാതെ ഇത് ഒരു യൂണിറ്റ് സമയത്തിനായുള്ള ഊർജ്ജ പ്രവാഹത്തിന് തുല്യമാണ് S പൂജ്യമല്ലാതായിരിക്കണമെങ്കിൽ E B എന്നിവ പൂജ്യമല്ലാതായിരിക്കണം അതിനാൽ ഇത് വൈദ്യുതകാന്തിക മണ്ഡലത്തിന്റെ ഒരു സംയോജനം മാത്രമാണ് അതായത് ഒരു വൈദ്യുത മണ്ഡലവും കാന്തികക്ഷേത്രവും ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രം ഈ ഊർജ്ജം ഒഴുകുന്നു അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടായിരിക്കുന്നതല്ല 10EBSഊർജ്ജ പ്രവാഹംവിസ്തീർണ്ണം X സമയം അടുത്തതായി E ക്രോസ് B ഓവർ mu 0 എന്നത് ശരിക്കും ഊർജ്ജ പ്രവാഹമാണെന്നും അത് dw by dt പ്ലസ് d E ഇലക്ട്രോ മാഗ്നറ്റിക് എന്നാൽ ഇന്റഗ്രൽ d s പ്രൈം ഡോട്ട് S എന്ന സമവാക്യം തൃപ്തിപ്പെടുത്തുന്നു